നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധയിനം രോഗാവസ്ഥകളുടെ മെക്കാനോബയോളജിയെ കുറിച്ചും ക്യാൻസറിനെ സംബന്ധിക്കുന്ന ചർച്ചകൾക്കും ഞാൻ ആരംഭം കുറിക്കുകയുണ്ടായി മെക്കാനോബയോളജിയെ ആധാരമാക്കി സംസാരിച്ചപ്പോൾ ECM ന്റെ സ്വഭാവഗുണങ്ങളിൽ പ്രത്യേകിച്ച് അവയുടെ ദൃഢതയിൽ പ്രകടമാകുന്ന പരിവർത്തനങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു ECM ൽ കാണപ്പെടുന്ന കൊളാജെൻ 1 എന്ന പ്രോട്ടീൻ വർദ്ധിത നിരക്കിൽ അടിഞ്ഞുകൂടുമ്പോൾ ദൃശ്യമാകുന്ന ഫൈബ്രോസിസ് എന്ന പ്രക്രിയയാണ് ഇതിന് കാരണമായി ഭവിക്കുന്നത് ക്യാൻസറിൽ മാത്രമല്ല മറിച്ച് ഹൃദയസംബന്ധമായ മറ്റ് രോഗാവസ്ഥകളിലും മേല്പറഞ്ഞ ഫൈബ്രോസിസ് എന്ന പ്രക്രിയ കാണപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ സന്ദർഭത്തിൽ ഫൈബ്രോസിസും ECM ന്റെ ദൃഢതയും പിന്നെ ക്യാൻസറും തമ്മിൽ നിലനിൽക്കുന്ന അഭേദ്യമായ ബന്ധമെന്താണെന്നും അതിന്റെ സ്വഭാവം എപ്രകാരമാണെന്നുമുള്ള ചോദ്യം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ് ECM ന്റെ ദൃഢത ഇൻവേഡോപോഡിയയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് സൂചന നൽകിയ അലിസ്സ വീവറുടെ ഈ പ്രബന്ധത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി മെട്രിക്സിനെ പ്രാദേശികമായി ഡീഗ്രേഡ് ചെയ്യാൻ കെല്പുള്ള അധിനിവേശ സ്വഭാവമുള്ള ഘടനാപരമായ വിന്യാസമാണ് മേല്പറഞ്ഞ ഇൻവേഡോപോഡിയ ദൃഢത എന്ന ഘടകം ക്യാൻസർ ഇൻവേഷനിൽ ചെലുത്തുന്ന പ്രഭാവം ജെല്ലിലെ പരീക്ഷണങ്ങളിലൂടെ പഠനത്തിന് ആധാരമാക്കിയ വലേരി വീവറിന്റെ പ്രബന്ധത്തെ കുറിച്ചും നാം ചർച്ച നടത്തിയിരുന്നു 200Pa ദൃഢതയുള്ള സസ്തനഗ്രന്ഥി സാധാരണഗതിയിൽ അതിമൃദുലമായ ഒരവയവമാണ് എന്നാൽ ക്യാൻസർ ഉടലെടുക്കുമ്പോൾ മേല്പറഞ്ഞ നിരക്കിൽ പലമടങ്ങ് വർദ്ധനവ് പ്രകടമാകുന്നതായി അവർ നിരീക്ഷിക്കുകയുണ്ടായി ഏതാണ്ട് 5000Pa എന്ന അളവിലെത്തുമ്പോൾ ഏകദേശം 20 മുതൽ 25 മടങ്ങ് വർദ്ധനവാണ് ദൃഢതയിൽ നമുക്ക് ദൃശ്യമാകുന്നത് ദൃഢതയിൽ പ്രകടമാകുന്ന വ്യതിയാനം മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങളുടെ ഘടനാപരമായ വിന്യാസത്തിനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് പ്രസ്തുത പഠനത്തിനായി കൊളാജെൻ 1 ജെൽ പോളിഅക്രിലമൈഡ് ജെൽ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത സിസ്റ്റങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത് മേല്പറഞ്ഞ ജെല്ലുകൾ വ്യത്യസ്ത ദൃഢതകളുള്ള ബേസ്മെന്റ് മെംബ്രേയ്ൻ ഉപയോഗപ്പെടുത്തി പ്രവർത്തനസജ്ജമാക്കിയ നിലയിലായിരുന്നു സസ്തനഗ്രന്ഥിയുടെ സ്വാഭാവികമായ ദൃഢത അനുകരിക്കുന്ന ഏകദേശം 200Pa ദൃഢതയുള്ള മൃദുലമായ പ്രതലങ്ങളിൽ മേൽ സൂചിപ്പിച്ച എപ്പിത്തീലിയൽ കോശങ്ങൾ അസീനി എന്ന ഘടനാപരമായ വിന്യാസം രൂപീകരിക്കുന്നതായി അവർ നിരീക്ഷിക്കുകയുണ്ടായി എന്നാൽ ദൃഢതയുടെ നിരക്ക് ഏതാണ്ട് 5000Pa എന്ന അളവിൽ സജ്ജീകരിച്ച സുദൃഢമായ പ്രതലങ്ങളിൽ ഇൻവേസിവ് ഫീനോടൈപ്പുള്ള കോശങ്ങളുടെ ഒരു സമൂഹമാണ് അവർക്ക് ദൃശ്യമായത് ഇവയിൽ അസീനി എന്ന ഘടന നിലവിലുണ്ടായിരുന്നില്ല പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്റെഗ്രിനിന്റെ തോത് അളന്ന് തിട്ടപ്പെടുത്തുകയുണ്ടായി ദൃഢതയുടെ നിരക്കിൽ വർദ്ധനവ് പ്രകടമാകുമ്പോൾ സ്വാഭാവികമായും മേല്പറഞ്ഞ ഇന്റെഗ്രിനിന്റെ നിരക്കിലും അതിന്റെ പ്രതിഫലനമുണ്ടാകുന്നു എന്നവർ കണ്ടെത്തുകയുണ്ടായി സുദൃഢമായ പ്രതലങ്ങളിൽ അനുഭവപ്പെടുന്ന വർദ്ധിത അളവിലുള്ള എഡ്ഹെഷൻ അസീനിയുടെ ഘടനാപരമായ പിളർപ്പിന് കാരണമായേക്കാം എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ശേഷം മൃദുവും ദൃഢവുമായ പ്രതലങ്ങൾ തമ്മിൽ അവർ തുലനം ചെയ്യുകയുണ്ടായി മൃദുപ്രതലങ്ങളിൽ മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങൾ ഫോക്കൽ കോംപ്ലെക്സുകൾ രൂപീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മുൻപത്തെ ചർച്ചകൾ അനുസ്മരിക്കുകയാണെങ്കിൽ ചെറിയ കുത്തുകൾ പോലുള്ള ഘടനയാണ് മേല്പറഞ്ഞ ഫോക്കൽ കോംപ്ലെക്സുകൾക്ക് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറിച്ച് സുദൃഢമായ പ്രതലങ്ങളിൽ ഇവയ്ക്ക് പകരം ഫോക്കൽ എഡ്ഹെഷനുകളാണ് നമുക്ക് ദൃശ്യമാകുന്നത് ഇതിന് പുറമെ വിൻക്യുലിൻ അഥവാ 397 ൽ കാണപ്പെടുന്ന ഫോക്കൽ എഡ്ഹെഷൻ കൈനേസിന്റെ ടൈറോസിൻ ഫോസ്ഫോറിലേഷൻ നമുക്ക് ദൃശ്യമാകും എന്നതാണ് വസ്തുത പ്രസ്തുത പ്രക്രിയ സുദൃഢമായ ഉപരിതലത്തിൽ വിൻക്യുലിൻ റിക്രൂട്ട്മെന്റിന് നിദാനമാകുന്നു ചുരുക്കിപ്പറഞ്ഞാൽ മെട്രിക്സിന്റെ ദൃഢത ഫോക്കൽ എഡ്ഹെഷൻ സുസ്ഥിരമാകാൻ അവശ്യമാണ് എന്ന സൂചനയാണ് ഇവ നൽകുന്നത് സുദൃഢമായ പ്രതലങ്ങളിൽ മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങൾ എന്നറിയപ്പെടുന്ന MEC കൾ വർദ്ധിച്ച നിരക്കിൽ ട്രാക്ഷൻ പ്രദർശിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഫോക്കൽ എഡ്ഹെഷനുകൾ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് ആക്റ്റോമയോസിൻ കൺട്രാക്ടയിൽ ഫോഴ്സുകൾ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ഇതിന്റെ ഭാഗമായി മൃദുപ്രതലങ്ങളിൽ ഏതാനും ഫൈബ്രോബ്ലാസ്റ്റുകൾ നിരത്തി ചില പരീക്ഷണങ്ങൾ അവർ നടത്തുകയുണ്ടായി പ്രസ്തുത കോശങ്ങൾക്ക് മേൽ നിയതമായ ഷിയർ ഫോഴ്സ് ചെലുത്തി മൃദുപ്രതലങ്ങളിലും ഫോക്കൽ എഡ്ഹെഷനുകൾ രൂപപ്പെടും എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ നിയതമായ ഫോഴ്സിന്റെ പ്രഭാവമാണ് ഫോക്കൽ എഡ്ഹെഷനുകളുടെ വളർച്ചയെ പ്രേരിപ്പിക്കുന്നതും ഇന്റെഗ്രിനിന്റെ സഞ്ചയം രൂപപ്പെടുന്നതിന് നിദാനമാകുന്നതും ചുരുക്കിപ്പറഞ്ഞാൽ Rho ROCK സിഗ്നലിങ് സംവിധാനമാണ് വർദ്ധിത നിരക്കിലുള്ള കൺട്രാക്ടയിലിറ്റിക്ക് കാരണമായി ഭവിക്കുന്നത് ഇവിടെ കൺട്രാക്ടയിലിറ്റിയുടെ നിരക്കിൽ നിയതമായ വർദ്ധനവ് പ്രകടമാണ് ട്രാക്ഷൻ അധികമായാൽ കൺട്രാക്ടയിലിറ്റിയിലും അതിന്റെ പ്രതിഫലനമുണ്ടാകും എന്നതാണ് വസ്തുത എന്നാൽ ഇന്റെഗ്രിനുകൾ നയിക്കുന്ന Rho ROCK സിഗ്നലിങ് എന്ന സംവിധാനമാണ് പ്രസ്തുത കൺട്രാക്ടയിലിറ്റിയുടെ ഉയർന്ന നിരക്കിന് കാരണമാകുന്നത് മൃദുലവും സുദൃഢവുമായ പ്രതലങ്ങൾക്കിടയിൽ Rho ROCK സിഗ്നലിങ് പ്രക്രിയ എങ്ങനെ അസ്വസ്ഥമാകുന്നു എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തുനോക്കാം പരീക്ഷണാർത്ഥം ഏതാനും ചില ഫൈബ്രോബ്ലാസ്റ്റുകളെ നമുക്ക് ദൃഢതയേറിയ ഈ പ്രതലങ്ങളിൽ അണിനിരത്താം പ്രസ്തുത സന്ദർഭത്തിൽ ROCK ന്റെ നിരക്ക് വർദ്ധിക്കുകയും അതിന് സമാന്തരമായി കോശങ്ങൾ അധിക ഫോഴ്സ് ചെലുത്തുന്നതായും നമുക്ക് ദൃശ്യമാകും എന്നതാണ് വസ്തുത പ്രസ്തുത കോശങ്ങളിൽ Y 27632 എന്ന ROCK ഇൻഹിബിറ്റർ ഉപയോഗിക്കുമ്പോൾ അവ സ്വാഭാവികമായി ചെലുത്തുന്ന ഫോഴ്സിൽ കുറവുണ്ടാകുന്നു മാത്രമല്ല കോശങ്ങളെ V14 Rho എന്ന കോൺസ്റ്റിറ്റ്യൂട്ടിവ്ലി ആക്റ്റീവ് കൺസ്ട്രക്ടായ V14 Rho ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാനും ചില പരീക്ഷണങ്ങൾ കൂടി അവർ നടത്തുകയുണ്ടായി പ്രസ്തുത സാഹചര്യത്തിൽ Rho ആക്റ്റീവേറ്റഡാണ് ഇവയുടെ സാന്നിധ്യത്തിൽ ട്രാക്ഷൻറെ നിരക്കിലും അതിന്റെ ഫലമായി എഡ്ഹെഷന്റെ നിരക്കിലും വർദ്ധനവ് പ്രകടമാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ഇതിന്റെ അനന്തരഫലമെന്നോണം മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങളുടെ കോളനിയുടെ വലുപ്പവും വർദ്ധിക്കുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ഈ കാണുന്നതിന്റെയെല്ലാം പ്രവർത്തനം തടസ്സപ്പെടുമ്പോഴും ഇവ രണ്ടിന്റെയും നിരക്കിൽ വർദ്ധനവ് ദൃശ്യമാകുന്നുണ്ട് എന്ന് സാരം MEK ഇൻഹിബിറ്ററായ U0126 എന്ന ഡ്രഗ് ഉപയോഗപ്പെടുത്തിയപ്പോൾ ROCK ന്റെ പ്രവർത്തനത്തിൽ ഇടിവുണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സ്വാഭാവികമായും ROCK ന്റെ അളവിൽ കുറവ് ദൃശ്യമാകുന്നു മെട്രിക്സിന്റെ ദൃഢത എഡ്ഹെഷൻ അസ്സംബ്ലിക്ക് കാരണമാകുകയും വളർച്ച ഘടകങ്ങളെ ആശ്രയിച്ചുള്ള ERK ആക്റ്റിവേഷന് നിദാനമാകുകയും ചെയ്യുന്നു ചുരുക്കിപ്പറഞ്ഞാൽ മൃദുവും ദൃഢവുമായ പ്രതലങ്ങളിൽ ദൃശ്യമാകുന്ന ദൃഢതയുടെ വർദ്ധനവ് ഈ കാണുന്ന ദിശയിലാണ് പ്രകടമാകുന്നത് മൃദുപ്രതലങ്ങളിൽ ഫോക്കൽ കോംപ്ലെക്സുകളും മറിച്ച് സുദൃഢമായ പ്രതലങ്ങളിൽ ഫോക്കൽ എഡ്ഹെഷനുകളുമാണ് കാണപ്പെടുന്നത് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് അക്ഷരാർത്ഥത്തിൽ ഫോക്കൽ കോംപ്ലെക്സുകളെ ഫോക്കൽ എഡ്ഹെഷനുകളാക്കി പരിവർത്തനം ചെയ്യുന്നത് മേല്പറഞ്ഞ ഫോക്കൽ എഡ്ഹെഷനുകൾ ERK സിഗ്നലിങിന് കാരണമാകുന്നു ഇത് ROCK നെ പ്രവർത്തന സജ്ജമാക്കുകയും മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫോറിലേഷനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു മേല്പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം ഫോക്കൽ എഡ്ഹെഷനുകളെ കൂടുതൽ സുശക്തതമാക്കാൻ ഉതകുന്നവയാണ് ചുരുക്കിപ്പറഞ്ഞാൽ മേൽ സൂചിപ്പിച്ച ചാക്രിക പ്രവർത്തനം കോശങ്ങളെ ട്യൂമർ ഫിനോടൈപ്പിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ദൃഢതയുടെ നിരക്കിൽ പ്രകടമാകുന്ന വർദ്ധനവ് ക്യാൻസറിന്റെ അധിനിവേശത്തിന് കാരണമാകുന്നു എന്ന് സ്ഥിതീകരിച്ച ആദ്യ ഇൻ വിട്രോ പരീക്ഷണമായിരുന്നു ഇത് പ്രസ്തുത പരീക്ഷണം സമാനമായ രീതിയിൽ ഒരു മൌസ് മോഡൽ ഉപയോഗപ്പെടുത്തി ഇൻ വൈവോ സാഹചര്യത്തിലേക്കും ഗവേഷകർ വ്യാപിപ്പിക്കുകയുണ്ടായി സെൽ 2009 ൽ പ്രസിദ്ധീകരിച്ച ഈ കാണുന്ന പ്രബന്ധത്തെ കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണയായി കാണപ്പെടുന്ന 20 മുതൽ 25 ശതമാനം വരെയുള്ള സ്തനാർബുദ രോഗികളിൽ EGFR അഥവാ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ആംപ്ലിഫൈഡായ നിലയിലായിരിക്കും ദൃശ്യമാകുന്നത് എലികളിൽ കാണപ്പെടുന്ന സമാനമായ HER 2 ജീനിനെ പരീക്ഷണാർത്ഥം ഗവേഷകർ മനുഷ്യനിൽ ആംപ്ലിഫൈ ചെയ്യുകയുണ്ടായി പ്രസ്തുത ഫാക്ടറിനെ നാം NEU എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് കൂടാതെ MMTV പ്രൊമോട്ടർ ഉപയോഗപ്പെടുത്തി ഒരു മാതൃകയും അവർ സൃഷ്ട്ടിക്കുകയുണ്ടായി പ്രസ്തുത മൌസ് മോഡൽ ഉപയോഗപ്പെടുത്തി നീണ്ട ലേറ്റൻസി കാലയളവുള്ള ബ്രെസ്റ്റ് ട്യൂമറുകൾ അവർ സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി എലികളിൽ കാണപ്പെടുന്ന HER 2 വിന് സമതുല്യമായ NEU ന്റെ എക്സ്പ്രെഷൻ ഇതിൽ നമുക്ക് ഉളവാക്കാൻ സാധിക്കുമെന്നതാണ് വസ്തുത ഇവയെ ട്രാക്കുചെയ്യുന്നതിലൂടെ ട്യൂമറുകൾ എപ്രകാരം രൂപപ്പെടുന്നുവെന്നും അവ വളർച്ചയിൽ എപ്രകാരം പുരോഗമിക്കുന്നു എന്നും നമുക്ക് കണ്ടെത്താൻ സാധ്യമായേക്കും ഇൻ വിട്രോ പഠനങ്ങളിൽ ചെയ്തതിന് സമാനമായി പോളിഅക്രിലമൈഡ് അല്ലെങ്കിൽ കൊളാജെൻ ജെൽ ഉപയോഗിച്ച് ദൃഢതയിൽ വ്യതിയാനം വരുത്തി റിയോളജിയും കംപ്രെഷൻ മെഷർമെന്റും അടിസ്ഥാനപ്പെടുത്തി അവർ പരീക്ഷണത്തെ വിപുലീകരിക്കുകയുണ്ടായി റിയോളജിയും കംപ്രെഷൻ മെഷർമെന്റും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ട്യൂമറിന്റെ വളർച്ചയിൽ ദൃശ്യമാകുന്ന പുരോഗമനം യുക്ത്യാനുസാരം സ്ഥാപിക്കാൻ നമുക്ക് കഴിയുമെന്ന് സാരം ഒരു സാധാരണ സസ്തനഗ്രന്ഥിയെ സംബന്ധിച്ചിടത്തോളം സാരമല്ലാത്ത ഒരു പ്രീ മാലിഗ്നന്റ് ഘട്ടവും മാരകമായ മാലിഗ്നന്റ് ഘട്ടവും ദൃശ്യമാണ് എന്നതാണ് വസ്തുത എന്നാൽ ഈ കാണുന്ന ഫലങ്ങളിലൂടെ ദൃഢതയിൽ പ്രകടമാകുന്ന വർദ്ധനവ് അവർ ചൂണ്ടികാണിക്കുകയുണ്ടായി പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി സിംപിൾ ഹാർമോണിക് ജനറേഷൻ എന്ന ഇമേജിങ് സംവിധാനം ഉപയോഗപ്പെടുത്തി ഗവേഷകർ മേല്പറഞ്ഞ മാതൃകയിൽ കാണപ്പെടുന്ന ECM ന്റെ ഘടനാപരമായ വിന്യാസത്തെ കുറിച്ച് പഠനം നടത്തുകയുണ്ടായി സാധാരണഗതിയിൽ അവയിൽ കാണപ്പെടുന്ന കൊളാജെൻ ഫൈബ്രിലുകൾ റിബ്ബൺ കണക്കെയുള്ള രൂപഘടനയാണ് കാഴ്ചവെച്ചത് എന്നാൽ പ്രീ മാലിഗ്നന്റ് വ്യവസ്ഥിതിയിൽ റിബ്ബൺ പോലുള്ള ഫൈബ്രിലുകൾക്കിടയിൽ ഏതാനും ചില ലീനിയർ സ്ട്രാൻഡുകളും ദൃശ്യമായിരുന്നു ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി മാലിഗ്നന്റ് ഘട്ടത്തിൽ ലീനിയർ ബണ്ടിലുകൾ പരസ്പരം ക്രോസ്സ് ലിങ്ക് ചെയ്യപ്പെട്ട നിലയിലാണ് ദൃശ്യമായത് മാലിഗ്നന്റ് ഘട്ടത്തിലേക്കുള്ള പരിവർത്തനം കൊളാജെൻ 1 ന്റെ സാന്ദ്രതയും ക്രോസ്സ് ലിങ്കിങും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്ന സൂചനയാണ് അവർ നൽകിയത് കോൾ ലൈസിൽ ഓക്സിഡേസ് അഥവാ LOX എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന എൻസൈമാണ് മേല്പറഞ്ഞ പ്രക്രിയയ്ക്ക് മധ്യസ്ഥം നിൽക്കുന്നത് പ്രസ്തുത മോഡലിലേക്ക് MCF 10AT മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങൾ ഇൻജെക്റ്റ് ചെയ്തപ്പോൾ അവ പ്രീ മാലിഗ്നന്റ് കോശങ്ങളായി രൂപാന്തരപ്പെടുന്നതായി അവർ കണ്ടെത്തുകയുണ്ടായി ഉയർന്ന തോതിൽ LOX എൻസൈം സ്രവിക്കുന്ന ഫൈബ്രോബ്ലാസ്റ്റുകളിൽ വർദ്ധിത നിരക്കിലുള്ള ക്രോസ്സ് ലിങ്കിങിന്റെ പ്രഭാവത്തെ കുറിച്ച് പഠിക്കുന്നതിനായി അവർ ഏതാനും ചില പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി സ്ട്രോമയിൽ കാണപ്പെടുന്ന മേല്പറഞ്ഞ ഫൈബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ സ്രവിക്കുന്ന LOX കൊളാജെനുമായി ക്രോസ്സ് ലിങ്ക് ചെയ്യുകയും അതിലൂടെ മെട്രിക്സിനെ സുദൃഢമാക്കുകയും ചെയ്യുമെന്ന ആശയമാണ് അവർ ഇവിടെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് പ്രസ്തുത ആശയം റിയോളജിക്കലി ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാനും അവർക്ക് സാധിച്ചു എന്നതാണ് വസ്തുത LOX കൊണ്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട സ്ട്രോമ തീർത്തും സുദൃഢവും ലീനിയറും അധിക നിരക്കിൽ ഫൈബ്രില്ലാർ കൊളാജെൻ നിലനിൽക്കുന്നവയുമായിരുന്നു സ്ട്രോമയുടെ സ്വഭാവവൈഭവങ്ങളിൽ പ്രകടമായ പരിവർത്തനം MEC കളിൽ അധിനിവേശത്തിനുള്ള സാധ്യത ഉണർത്തുന്നതായി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി പ്രസ്തുത അധിനിവേശ പ്രവണത അധിക നിരക്കിൽ ദൃശ്യമാകുന്ന എഡ്ഹെഷനും ലീഷന്റെ വലുപ്പത്തിൽ ഉളവാകുന്ന വർദ്ധനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാരം ചുരുക്കിപ്പറഞ്ഞാൽ മെട്രിക്സിന്റെ ദൃഢത വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കാണുന്ന മാമ്മറി ഓർഗനോയിഡുകൾ ഇൻവേഷൻ കാഴ്ചവെക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന സൂചനയാണ് പ്രസ്തുത പരീക്ഷണം സ്ഥിതീകരിക്കുന്നത് ഇതിന് നേർവിപരീതമായ പരീക്ഷണവും അവർ നടത്തുകയുണ്ടായി പരീക്ഷണാർത്ഥം BAPN എന്ന ഡ്രഗ് ഉപയോഗപ്പെടുത്തി ഗവേഷകർ LOX ന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയുണ്ടായി ഇപ്രകാരം ചെയ്തപ്പോൾ ഫൈബ്രോസിസിന്റെ നിരക്കിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുകയും ഫോക്കൽ എഡ്ഹെഷനുകൾ ദുർബ്ബലമാകുകയും ക്രമേണ ഇത് ട്യൂമറിന്റെ പുരോഗതിക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അവർ നിരീക്ഷിക്കുകയുണ്ടായി എന്നതാണ് വസ്തുത LOX ന്റെ നിരക്കും അവയുടെ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവ കോശങ്ങളിൽ ഇൻവേസീവ് ഫീനോടൈപ്പ് ഉടലെടുക്കാൻ കാരണമാകുന്നു LOX ന്റെ പ്രവർത്തനത്തിന് വിലങ്ങിടുന്നതിലൂടെ പ്രസ്തുത സാഹചര്യം തിരുത്താൻ നമുക്ക് സാധ്യമായേക്കും എന്ന സൂചനയാണ് മേല്പറഞ്ഞ രണ്ട് പരീക്ഷണങ്ങളും നമുക്ക് നൽകുന്നത് മാത്രമല്ല മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങൾക്ക് സ്ട്രോമയിലെ കോശങ്ങളുടെ സഹായമില്ലാതെ തന്നെ സ്വമേധയ പ്രതികരിക്കാനും ദൃഢതയുടെ നിരക്കിൽ വർദ്ധനവ് ദൃശ്യമാകുമ്പോൾ അതിനനുസൃതമായി അധിനിവേശ പ്രവണത കാഴ്ചവെക്കാനും സാധിക്കുമോ എന്നറിയുന്നതിനായി ഗവേഷകർ ഏതാനും ചില പരീക്ഷണങ്ങൾ കൂടി ഇതിനോടൊപ്പം നടത്തുകയുണ്ടായി പ്രസ്തുത പരീക്ഷണത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തുനോക്കാം മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങൾ ഇൻജെക്റ്റ് ചെയ്ത് അവയിൽ ഓർഗനോയിഡുകൾ രൂപപ്പെടുവാൻ അനുവദിക്കുകയുണ്ടായി കൊളാജെൻ ജെല്ലുകളിൽ പരീക്ഷണം നടത്തുമ്പോൾ അവയിൽ അസീനി എന്ന ഘടനാപരമായ വിന്യാസം ഉടലെടുക്കുന്നതായി ഗവേഷകരുടെ ശ്രദ്ധയിൽ പെട്ടു ഇത് കൂടാതെ മറ്റ് രണ്ട് പരീക്ഷണങ്ങൾ കൂടി അവർ നടത്തുകയുണ്ടായി ഒന്നിൽ അവർ കാര്യമായൊന്നും ചെയ്തില്ല എന്നാൽ മറ്റേതിൽ കൊളാജെനുമായി ക്രോസ്സ് ലിങ്ക് ചെയ്യുന്നതിനായി റൈബോസ് ഉപയോഗപ്പെടുത്തുകയുണ്ടായി മേല്പറഞ്ഞ സന്ദർഭത്തിൽ അസീനി എന്ന ഘടനാപരമായ വിന്യാസം പിളരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും റൈബോസിന്റെ ഉപയോഗം പ്രസ്തുത ഘടന നിലനിൽക്കാൻ സഹായകമാകുന്നുണ്ട് എങ്കിലും ErbB2 ഉപയോഗിക്കുമ്പോൾ അവയുടെ സജ്ജീവമായ പ്രവർത്തനം മൂലം മേല്പറഞ്ഞ ഘടന വീണ്ടും തകർന്നടിയാൻ കാരണമായേക്കാം മേൽ സൂചിപ്പിച്ച ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും റൈബോസ് ഉപയോഗപ്പെടുത്തുമ്പോൾ ക്രോസ്സ് ലിങ്കിങിലൂടെ അവ ദൃഢതയുടെ വർദ്ധനവിന് നിദാനമാകുകയും ഫോക്കൽ എഡ്ഹെഷനുകളെ സുദൃഢമാക്കുകയും ചെയ്യുന്നു ECM ന്റെ ദൃഢതയുടെ പ്രഭാവം കൊണ്ട് മാത്രം ട്യൂമറിന്റെ വളർച്ചയിൽ പുരോഗതി ദൃശ്യമായേക്കാം എന്ന സൂചനയാണ് ഈ കാണുന്ന ഫലങ്ങളെല്ലാം ഒന്നിച്ച് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് സാധാരണനിലയിലുള്ള കോശങ്ങളിൽ അസീനിയെ വലയം ചെയ്ത് നിയതമായ ഒരു ECM നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പ്രീ മാലിഗ്നന്റായ ഘട്ടത്തിൽ മധ്യഭാഗം ഈ കാണുന്ന കോശങ്ങൾ കൊണ്ട് പൂരിതമാകുകയും ECM ഫൈബറുകളുടെ ബണ്ടിൽ രൂപവൽക്കരിക്കപ്പെടുന്നതായും നമുക്ക് ദൃശ്യമാകുന്നു എന്നതാണ് വസ്തുത എന്നാൽ ട്യൂമർ ഉടലെടുക്കുമ്പോൾ ഈ കാണുന്ന ബേസ്മെന്റ് മെംബ്രേയ്ൻ ലംഘിച്ച് കോശങ്ങൾ അധിനിവേശ പ്രവണത കാഴ്ചവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ECM ന്റെ ദൃഢതയിൽ വർദ്ധനവുണ്ടാകുമ്പോൾ നാം സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നതിൽനിന്നും വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ECM ന്റെ ദൃഢത അഥവാ സാന്ദ്രതയിൽ വർദ്ധനവ് ദൃശ്യമാകുമ്പോൾ സ്ട്രോമയിലെ മെട്രിക്സിൽ കാണപ്പെടുന്ന സുഷിരങ്ങളുടെ വലുപ്പം സ്വാഭാവികമായി കുറയുകയും കോശങ്ങൾ ക്യാൻസറിന് അനുരൂപമായ അധിനിവേശ പ്രവണത കാഴ്ചവെക്കാനുള്ള സാധ്യത തടസ്സപ്പെടുകയും ചെയ്യും എന്ന അനുമാനത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്നാൽ ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായി കോശങ്ങൾ അധിക തോതിൽ അധിനിവേശ പ്രവണത പ്രകടമാക്കാനുള്ള സാധ്യതകളാണ് ഏറെയും ദൃശ്യമാകുന്നത് പ്രസ്തുത സന്ദർഭത്തിൽ മേല്പറഞ്ഞ ക്യാൻസർ കോശങ്ങൾ മെട്രിക്സിനെ ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദൃഢതയുടെ നിരക്കിൽ പ്രകടമാകുന്ന വർദ്ധനവ് കോശങ്ങളിൽ അധിക നിരക്കിലുള്ള വംശവർദ്ധനയും സംയോജിതമായ പ്രവർത്തനം കാഴ്ചവെക്കാനും പ്രേരിപ്പിക്കുന്നു മാത്രമല്ല പ്രസ്തുത കോശങ്ങൾ സ്രവിക്കുന്ന പ്രോട്ടിയേസ് എന്ന ഘടകം മെട്രിക്സിനെ ഡീഗ്രേഡ് ചെയ്ത് അധിനിവേശ പ്രവണത അനുവദിക്കുന്ന സാധ്യതകളിലേക്കാണ് വഴിതുറക്കുന്നത് പ്രോട്ടീനേസസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകളുടെ ഒരു വിഭാഗമാണ് മേല്പറഞ്ഞ മെട്രിക്സിന്റെ ഡീഗ്രേഡേഷൻ പ്രക്രിയയ്ക്ക് മധ്യസ്ഥം നിൽക്കുന്നത് ഇത് ട്യൂമറിജെനിസിസ് എന്ന അവസ്ഥയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട് എന്നതാണ് വസ്തുത മെട്രിക്സ് മെറ്റാലോ പ്രോട്ടീനേസസ് അഥവാ MMP എന്നറിയപ്പെടുന്ന 23 വ്യത്യസ്തയിനം പ്രോട്ടീനുകൾ മനുഷ്യശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത പ്രസ്തുത ലെക്ച്ചർ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ ECM ന്റെ ദൃഢത MMP യുടെ എക്സ്പ്രെഷനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി